നമ്മൾ ഇന്ന് ഇന്റർമീഡിയറ്റ് പരിഷ്ക്കരണ ഉപകരണം പഠിക്കാൻ ശ്രമിക്കും ഒരു പ്രൈമറി ഉപകരണം ഉണ്ടെന്ന് നമ്മൾ വളരെ വ്യക്തമായി കണ്ടു അതിനുശേഷം നമുക്ക് ഒരു ഇന്റർമീഡിയറ്റ് ഉപകരണം ഉണ്ടായിരുന്നു തുടർന്ന് നമുക്ക് ഫൈനൽ അല്ലെങ്കിൽ സെക്കണ്ടറി ഉപകരണം ഉണ്ടായിരുന്നു ഇവിടെ അടിസ്ഥാനപരമായി പ്രൈമറി സിഗ്നൽ രേഖപ്പെടുത്തും തുടർന്ന് ഔട്ട് പുട്ടിന് വായിക്കാൻ കഴിയുന്ന തരത്തിൽ ഇത് ഒരു രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യും ഇന്ന് പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ എല്ലായ്പ്പോഴും ഒരു വൈദ്യുത ഔട്ട് പുട്ട് നേടാൻ ശ്രമിക്കുന്നു അതിനാൽ വൈദ്യുത ഉൽപാദനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വോൾട്ടേജിനായി കാത്തിരിക്കുന്നു അതിനാൽ ഈ വോൾട്ടേജ് ഒരു ഫീഡ്ബാക്ക് നിയന്ത്രണത്തിനായി എളുപ്പത്തിൽ തിരികെ കൊണ്ടുപോകാനും പ്രക്രിയ നിയന്ത്രിക്കാനും കഴിയും നമ്മൾ ആദ്യം ഇന്റർമീഡിയറ്റ് പരിഷ്ക്കരണ ഉപകരണം കാണും ഇലക്ട്രിക്കൽ ഇന്റർമീഡിയറ്റ് പരിഷ്ക്കരണ ഉപകരണങ്ങളുടെ ഗുണം നമ്മൾ കാണും അവസാനമായി ടെർമിനേറ്റിംഗ് ഉപകരണങ്ങൾ നമ്മൾ കാണും അവ അവസാന ഉപകരണങ്ങളാണ് ആംപ്ലിഫിക്കേഷനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ രണ്ട് തരം ആംപ്ലിഫിക്കേഷൻ ഉണ്ട് ഒന്ന് മെക്കാനിക്കൽ ആംപ്ലിഫിക്കേഷൻ മറ്റൊന്ന് ഇലക്ട്രോണിക് ആംപ്ലിഫിക്കേഷൻ മെക്കാനിക്കൽ ആംപ്ലിഫിക്കേഷൻ ഒരു നിശ്ചിത കാലയളവിൽ എല്ലായ്പ്പോഴും തേയ്മാനം ഉണ്ട് അതിനാൽ ഒരു ബാക്ക്ലാഷ് പിശക് ഉണ്ട് അല്ലെങ്കിൽ അവിടെ വ്യതിചലനം ഉണ്ടാകാം മെക്കാനിക്കൽ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ഡയഫ്രം ഇട്ടാൽ ഒരു വ്യതിചലനം ഉണ്ടാകാം അതിനാൽ മെക്കാനിക്കൽ ആംപ്ലിഫിക്കേഷൻ ഉപയോഗിക്കുന്നതിന് നിങ്ങൾക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇലക്ട്രോണിക് ആംപ്ലിഫിക്കേഷൻ എളുപ്പമാണ് ഇവിടെ തേയ്മാനം കുറവാണ് ഇന്ന് നമ്മൾ എല്ലായ്പ്പോഴും ഇലക്ട്രോണിക് ആംപ്ലിഫിക്കേഷൻ ഇഷ്ടപ്പെടുന്നു ഇലക്ട്രോണിക് ആംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ആംപ്ലിഫയർ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളിൽ നിന്ന് ഇലക്ട്രോണിക് ഉപകരണങ്ങളെ വേർതിരിക്കുന്ന ഒരു ഘടകം ഇലക്ട്രോണിക് സർക്യൂട്ടിന്റെ ചില ഭാഗങ്ങളിൽ നേരിട്ടുള്ള സമ്പർക്കത്തിന്റെ അഭാവത്തിൽ ഒരു സ്ഥലത്തിലൂടെ ഇലക്ട്രോണുകൾ ഒഴുകുന്നുവെന്നാണ് അനുമാനിക്കുന്നത് ഇത് വാക്വം ട്യൂബിന്റെ ഉപയോഗത്തെ സൂചിപ്പിക്കുന്നു മുൻകാലങ്ങളിൽ നമ്മൾ വാക്വം ട്യൂബുകൾ ഉപയോഗിച്ചിരുന്നു അതിനാൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും ഉപയോഗിക്കുന്നതിലെ വ്യത്യാസമെന്താണെന്ന് ഇവിടെ നമ്മൾ തിരിച്ചറിയുന്നു ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രധാനമായും ശൂന്യതയിൽ ആശയവിനിമയം നടത്താൻ ശ്രമിക്കുന്നു കാഥോഡ് ചൂടാകുമ്പോൾ ഇലക്ട്രോണുകൾ പുറന്തള്ളപ്പെടുന്നു എന്ന വസ്തുതയെ അടിസ്ഥാനമാക്കിയാണ് വാക്വം ട്യൂബുകളുടെ പ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്ന തത്വം ഇതാണ് വാക്വം ട്യൂബ് സാങ്കേതികവിദ്യ പതുക്കെ ഈ വാക്വം ട്യൂബ് സാങ്കേതികവിദ്യ മാറ്റി ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ വലിയ തോതിൽ ഉയർന്നുവന്നു അതിനാൽ പുറത്തുവിടുന്ന ഇലക്ട്രോണുകൾ പോസിറ്റീവ് ചാർജ് പ്ലേറ്റിലേക്ക് ആകർഷിക്കപ്പെടുകയും പ്ലേറ്റ് സർക്യൂട്ടിലൂടെ വൈദ്യുത പ്രവാഹം ഉണ്ടാകുകയും ചെയ്യുന്നു വൈദ്യുത പ്രവാഹം നിയന്ത്രിക്കാൻ ഗ്രിഡ് എന്ന മൂന്നാമത്തെ ഘടകം ഉപയോഗിക്കാം അതിനാൽ നമുക്ക് ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നു നമുക്ക് ഒരു പോസിറ്റീവ് ഉണ്ടായിരുന്നു അതിനാൽ നെഗറ്റീവ് പോസിറ്റീവ് എന്നിട്ട് നമുക്ക് ഗ്രിഡ് ഉണ്ടായിരുന്നു ഇത് സ്കിമാറ്റിക് ഡയഗ്രം ഒരു ഗ്രിഡ് വൈദ്യുത പ്രവാഹം നിയന്ത്രിക്കാൻ ഗ്രിഡ് ഉപയോഗിക്കാം കാഥോഡിനും പ്ലേറ്റിനുമിടയിൽ ഗ്രിഡ് അവതരിപ്പിക്കപ്പെടുന്നു അതായത് കാഥോഡിനെ അപേക്ഷിച്ച് ഇത് നെഗറ്റീവ് ചാർജ്ജ് ചെയ്യപ്പെടും ഗ്രിഡിലെ നെഗറ്റീവ് വോൾട്ടേജിനെ ബയസ് എന്ന് വിളിക്കുന്നു ഒരു സാധാരണ സർക്യൂട്ട് ഇങ്ങനെയാണ് കാണപ്പെടുന്നത് നിങ്ങൾ കുറച്ച് വോൾട്ടേജ് പ്രയോഗിക്കുന്നു അല്ലെങ്കിൽ ചൂട് പ്രയോഗിക്കുന്നു അതിനാൽ കാഥോഡ് പുറപ്പെടുവിക്കുന്നു നിങ്ങൾക്ക് ഒരു ആനോഡ് ഉണ്ട് അതിനാൽ അത് ഒരു പ്ലേറ്റ് ആണ് ഇതിനിടയിൽ നിങ്ങൾക്ക് ഒരു ഗ്രിഡ് ഉണ്ട് കൂടാതെ ഗ്രിഡിന് ഒരു ബയസ് വോൾട്ടേജുണ്ട് അതിനാൽ ഇത് ഒരു പ്ലേറ്റ് വിതരണമാണ് നിങ്ങൾക്ക് ഒരു ആംപ്ലിഫയർ ലോഡ് ഉണ്ട് അതിനാൽ ഇലക്ട്രോണിക് ആംപ്ലിഫയറിന്റെ സ്കീമാറ്റിക് അല്ലെങ്കിൽ അടിസ്ഥാന സർക്യൂട്ട് ഇങ്ങനെയാണ് പക്ഷപാതപരമായ ഒരു കാഥോഡ് ആനോഡ് ഗ്രിഡിന് കഴിയുമോ വൈദ്യുത പ്രവാഹം നിയന്ത്രിക്കാൻ ഇത് ഉപയോഗിക്കുന്നു തുടർന്ന് നിങ്ങൾക്ക് ഒരു പ്ലേറ്റ് വിതരണമുണ്ട് തുടർന്ന് നിങ്ങൾക്ക് ഒരു ആംപ്ലിഫയർ ലോഡ് ഉണ്ട് സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ അതിന്റെ ലളിതമായ രൂപത്തിൽ ഇവിടെ കാണാം ഒരു ഹീറ്റർ A ഫിലമെന്റ് ചൂടാക്കുന്നു ഇത് കാഥോഡിനെ ചൂടാക്കുന്നു B പ്ലേറ്റ് വിതരണത്തെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ ആവശ്യമായ ബയാസ് വോൾട്ടേജ് C വിതരണം ചെയ്യുന്നു അതിനാൽ ഇത് A ഇതാണ് B തുടർന്ന് ഇത് ബയാസ് വോൾട്ടേജ് വിതരണമാണ് ഇത് ഒരൊറ്റ സ്റ്റേജ് ആംപ്ലിഫിക്കേഷനോ അല്ലെങ്കിൽ സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറിനോ ആണ് ടെലിമെട്രി എന്നൊരു ആശയവുമുണ്ട് ഇന്ന് ടെലിമെട്രി ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ കാര്യത്തിൽ വളരെയധികം സംസാരിക്കപ്പെടുന്നു അതിനാൽ ടെലിമെട്രി എന്നത് അകലെയുള്ള ഒരു അളവാണ് ടെലിമെട്രി എന്ന പേര് നിർദ്ദേശിച്ചതുപോലെ ദൂരം അളക്കുന്ന ദൂരം സാധാരണയായി റേഡിയോ ഹൈപ്പർസോണിക് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ചാണ് നടത്തുന്നത് അതിനാൽ വയർലെസ് ഡാറ്റാ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നു ഇന്ന് നമ്മൾ അളക്കൽ ഘട്ടത്തിൽ ടെലിമെട്രി ആശയം ഉപയോഗിക്കുന്നു അതിനാൽ നിങ്ങളുടെ അളന്ന അളവ് ഉണ്ട് ഇത് ഒരു പ്രൈമറി ഡിറ്റക്ടറാണ് അതിനുശേഷം നമുക്ക് ഒരു ടെലിമെട്രി ട്രാൻസ്മിറ്റർ ഉണ്ട് തുടർന്ന് നമുക്ക് ഒരു ടെലിമെട്രി ചാനൽ ഉണ്ട് തുടർന്ന് ടെലിമെട്രി റിസീവർ ഉണ്ട് ഒടുവിൽ നിങ്ങൾക്ക് ഒരു ഡിസ്പ്ലേ ഉണ്ട് അതിനാൽ ഈ മുഴുവൻ കാര്യങ്ങളെയും ഒരു ഇന്റർമീഡിയറ്റ് ഘട്ടം എന്ന് വിളിക്കുന്നു ഇത് പ്രൈമറിയെ സെക്കൻഡറിയിലേക്ക് പരിവർത്തനം ചെയ്യുന്നു അതിനിടയിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നു ഇത് പ്രൈമറി കുറവായതിനെ സെക്കണ്ടറി റിഡക്ഷനായി പരിവർത്തനം ചെയ്യാൻ ശ്രമിക്കുന്നു അത് റെക്കോർഡുചെയ്യാനോ ദൃശ്യവൽക്കരിക്കാനോ കഴിയും ടെലിമെട്രി വയർലെസ് ആണ് ഇന്ന് നമ്മൾ ഇൻഫ്രാറെഡ് ഇമേജിംഗ് ഉപയോഗിക്കുന്നു ആശയവിനിമയത്തിനായി നമ്മൾ റേഡിയോയും ഹൈപ്പർസോണിക് radio hypersonic ഉപയോഗിക്കുന്നു പൾസ് കോഡ് മോഡുലേറ്ററിനെ പിസിഎം ടെലിമെട്രി ഫോർമാറ്റാണ് ഇഷ്ടപ്പെടുന്നത് കാരണം പൾസ്ഡ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്ററുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒന്നിലധികം ഡാറ്റ കൈകാര്യം ചെയ്യൽ ഡിജിറ്റൽ ഡാറ്റയുടെ സംയോജനം മെച്ചപ്പെട്ട കൃത്യത ശബ്ദം കുറയ്ക്കൽ എന്നിങ്ങനെ നിരവധി ഗുണങ്ങളുണ്ട് അതിനാൽ ഇവ ചില സാങ്കേതികതകളാണ് പൾസ്ഡ് കോഡ് മോഡുലേഷനും പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനും രണ്ട് വ്യത്യസ്ത തരം ആണ് അടിസ്ഥാനപരമായി നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് ഇവ പൾസുകളാണ് നിങ്ങൾക്ക് നേരിട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഇന്റഗ്രേറ്റർ ലഭിക്കുന്ന ശബ്ദം ഉണ്ടാകും നിങ്ങൾ ഒരു പൾസ് കോഡ് മോഡുലേഷനായി പരിവർത്തനം ചെയ്തു അതിനാൽ ഒരു നിർദ്ദിഷ്ട ഘട്ടത്തിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നത്ര ഡാറ്റ നിങ്ങൾക്ക് ലഭിക്കും ഒരു ടെലിമീറ്ററിംഗ് സിസ്റ്റം സാധാരണയായി ഒരു സബ് കാരിയർ ഓസിലേറ്റർ ഉപയോഗിക്കുന്നു വിവിധ ഓസിലേറ്ററുകളിലൂടെ കൈമാറുന്ന വിവരങ്ങൾ റിസിവിങ് സ്റ്റേഷനിൽ പ്രോസസ്സ് ചെയ്യുന്നു നിങ്ങൾ ഇവിടെ കാണുകയാണെങ്കിൽ അത് റിസിവിങ് സ്റ്റേഷനാണ് നിങ്ങൾക്ക് ദൃശ്യവൽക്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ റേഡിയോ സ്റ്റേഷൻ പോലെയാണ് നിങ്ങൾക്ക് ഒരു റേഡിയോ സ്റ്റേഷൻ ഉണ്ട് നിങ്ങൾക്ക് ഒന്നിലധികം എഫ്എം ഉണ്ട് എഫ്എം 1 എഫ്എം 2 എഫ്എം 3 എന്നിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റേഷൻ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഒരു റിസീവർ ഉള്ളപ്പോൾ നമ്മൾ സെറ്റ് ഫ്രീക്വൻസികൾ സ്വീകരിക്കാൻ ശ്രമിക്കുന്നു നമുക്ക് ഒരു ഫ്രീക്വൻസിയിൽ നിന്ന് മറ്റൊരു ഫ്രീക്വൻസിയിലേക്ക് മാറി അത് നേടാൻ ആരംഭിക്കാം അതിനാൽ റിസിവിങ് അറ്റത്ത് ഒന്നിലധികം ഡാറ്റ കൈകാര്യം ചെയ്യുന്ന ഡാറ്റ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം വിവിധ എസ്സിഒകളുടെ ഓസിലേറ്ററുകളിലൂടെ കൈമാറുന്ന വിവരങ്ങൾ റിസിവിങ് സ്റ്റേഷനിൽ പ്രോസസ്സ് ചെയ്യുന്നു ഡി കമ്മ്യൂട്ടേറ്റർ ഡി മൾട്ടിപ്ലക്സർ അല്ലെങ്കിൽ വിവേചനപരമായ സർക്യൂട്ട് ഉപയോഗിച്ച് വിവിധ സബ് കാരിയർ ഫ്രീക്വൻസികൾ വേർതിരിച്ച് ഡീകോഡ് ചെയ്യുന്നു അതിനാൽ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഒരു ബണ്ടിൽ ഡാറ്റ വരുന്നു ഈ ഡാറ്റ ഇപ്പോൾ വേർതിരിച്ച് തുടർന്ന് വേർതിരിച്ച ഡാറ്റ കോഡ് ചെയ്യുകയും നിങ്ങൾ ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നു ഇത് ആശയവിനിമയം നടത്തിയ ശേഷം നിങ്ങൾക്കത് ലഭിക്കുമ്പോൾ ഇവയെല്ലാം കോഡ് ചെയ്യുകയും തുടർന്ന് ഇവിടെ നിങ്ങൾ അത് ഡീകോഡ് ചെയ്യുകയും തുടർന്ന് ഡാറ്റ ഉപയോഗിക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നു വേർതിരിച്ച സിഗ്നലുകൾ ഉചിതമായ ഔട്ട് പുട്ട് ചാനലുകളായി വേർതിരിച്ചിരിക്കുന്നു വിവരങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമാണ് നേടിയ ടെസ്റ്റ് ഡാറ്റ ആദ്യം റെക്കോർഡുചെയ്യുന്നു അതിനാൽ അവ അവസാനത്തേതല്ല കൂടാതെ മൾട്ടിപ്ലക്സറിൽ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ കൃത്യമായി ഡി കമ്മ്യൂട്ടേറ്ററുമായി സമന്വയിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം കൃത്യമായ സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ഡാറ്റ ശേഖരിക്കുമ്പോൾ ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ഉപയോഗിക്കുന്നു അതിനാൽ നമ്മൾ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ഇതിലേക്ക് മടങ്ങുകയാണെങ്കിൽ നിങ്ങൾ മനസിലാക്കും അളക്കുന്നത് മെക്കാനിക്കൽ ആകാം അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഗവേഷണത്തെ പറ്റി പറയാം അത് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നു നമുക്ക് ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ട് നമ്മൾ ഫോഴ്സ് അളക്കുന്നു നമ്മൾ എന്താണ് അളക്കുന്നത് നമ്മൾ വോൾട്ടേജ് അളക്കുന്നു ഇപ്പോൾ ഒരു രസകരമായ പ്രശ്നം ആശയവിനിമയം നടത്താൻ എനിക്ക് ഒരു വയർ ഉണ്ടെങ്കിൽ എന്നതാണ് ഉദാഹരണത്തിന് ഡ്രില്ലിംഗിൽ ഞാൻ എന്റെ ഡൈനാമോമീറ്റർ ഇട്ടു സ്പിൻഡിൽ ഫോഴ്സ് രേഖപ്പെടുത്തുന്നു അതായത് ത്രസ്റ്റും ടോർക്കും ഒരു വയർ ഉണ്ടെങ്കിൽ വയർ കുടുങ്ങും അതിനാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് സിഗ്നൽ ആശയവിനിമയം നടത്താൻ ശ്രമിക്കുന്നു ഡൈനാമോമീറ്ററിൽ നേടിയതെന്തും അത് റിസിവിങ് സ്റ്റേഷനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു റിസിവിങ് സ്റ്റേഷനിൽ ഞാൻ ചെയ്തത് ഞാൻ ഫോഴ്സ് പരിവർത്തനം ചെയ്തു അതായത് വോൾട്ടേജ് ഡാറ്റയെ ഫോഴ്സ് ഡാറ്റയാക്കി മാറ്റി ഈ ഫോഴ്സ് N നായി ഞാൻ ഇതിനകം കാലിബ്രേറ്റ് ചെയ്ത വോൾട്ടേജ് എന്തായിരിക്കും അതിനാൽ ഞാൻ ലീനിയർ സോൺ എടുത്തു ഇപ്പോൾ എനിക്ക് ഈ വോൾട്ടേജ് ലഭിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാം അതിനനുസരിച്ച് ഞാൻ അതിൽ ഫോഴ്സ് നേടാൻ ശ്രമിക്കുന്നു കൂടാതെ രസകരമെന്നു പറയട്ടെ ഇത് ചലനാത്മകമാക്കാൻ ഞാൻ ശ്രമിക്കുന്നു അതിനാൽ മെഷീനിംഗ് ആരംഭിക്കുമ്പോൾ ടോർക്ക് അല്ലെങ്കിൽ ത്രസ്റ്റ് സമയവുമായി ബന്ധപ്പെട്ട് വർദ്ധിക്കുകയും കുറയുകയും ചെയ്യുന്നു അതിനാൽ ഇത് ത്രസ്റ്റ് ആകാം ഇത് സമയമായിരിക്കാം ഇത് ന്യൂട്ടണിലാണ് അതിനാൽ എനിക്ക് ഈ ഔട്ട് പുട്ട് ലഭിക്കുന്നു അതിനാൽ ഇവിടെ ഞാൻ ടെലിമെട്രിക്കായി ഒരു ഫോഴ്സ് സിഗ്നലിലേക്ക് വോൾട്ടേജ് ആശയവിനിമയം നടത്തുന്നു അത് പുറത്ത് പ്രദർശിപ്പിക്കും ടെലിമെട്രി രീതിയിലൂടെ ഈ ആശയവിനിമയം നടത്താം ടെലിമെട്രി രീതിയിൽ ആദ്യം എനിക്ക് ഡാറ്റ സ്വന്തമാക്കണം ഡാറ്റ വേർതിരിക്കണം കൂടാതെ ഞാൻ ഡാറ്റ കൈമാറണം അതിനാൽ ഞാൻ പ്രക്ഷേപണം ചെയ്യുന്നു ഞാൻ പ്രക്ഷേപണം ചെയ്യുമ്പോൾ എനിക്ക് ഒന്നിലധികം ചാനലുകൾ ഉണ്ട് ഞാൻ വിവിധ ഫ്രീക്വൻസികളിലേക്കോ വിവിധ സമയ സിഗ്നലുകളിലേക്കോ വേർതിരിക്കുന്നു തുടർന്ന് ഞാൻ അവ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു അതിനാൽ ഇവിടെ ഞാൻ അവയെ കോഡ് ചെയ്യാൻ ശ്രമിക്കുന്നു ഇവിടെ ഞാൻ അവയെ ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുന്നു ഇവിടെ ഞാൻ പൾസ് കോഡ് മോഡുലേഷൻ ചെയ്യാൻ ശ്രമിക്കുന്നു തുടർന്ന് എനിക്ക് എല്ലാം ലഭിക്കുന്നു അവിടെ ശബ്ദം കുറയുന്നു തുടർന്ന് ഞാൻ ഡാറ്റ പരിവർത്തനം ചെയ്യുന്നു അതിനാൽ ട്രാൻസ്ഡ്യൂസറുകളിൽ ഉപയോഗിക്കുന്ന ഇന്റർമീഡിയറ്റ് മോഡിഫൈയിംഗ് ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ടെലിമെട്രി ഇങ്ങനെയാണ് അതിനാൽ നമുക്ക് ഒരു ലളിതമായ പ്രശ്നം പരീക്ഷിക്കാം ഒരു എൽവിഡിടിയുടെ ഔട്ട്പുട്ട് 5 വോൾട്ട് വോൾട്ട്മീറ്ററുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഒരു ആംപ്ലിഫയർ വഴി അതിന്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ 250 ആണ് കൂടാതെ 2 മില്ലിവോൾട്ടിന്റെ ഔട്ട് പുട്ട് എൽവിഡിടിയുടെ ടെർമിനലുകളിൽ ദൃശ്യമാകുന്നു കോർ 0 5 അകലെ നീങ്ങുമ്പോൾ എൽവിഡിടി നമുക്ക് ഒരു പ്രൈമറി കോയിൽ ഉണ്ടായിരുന്നു നമുക്ക് ഒരു കോർ ഉണ്ടായിരുന്നു കൂടാതെ നമുക്ക് 2 സെക്കൻഡറി കോയിലുകളും ഉണ്ട് അതിനാൽ എൽവിഡിടിയുടെ കോർ 0 5 അകലെ നീങ്ങുമ്പോൾ ടെർമിനലിലുടനീളം ഔട്ട് പുട്ട് 2 മില്ലിവോൾട്ട് ദൃശ്യമാകുന്നത് എൽവിഡിടിയുടെ സെൻസിറ്റിവിറ്റി കണ്ടെത്തുക അതിനാൽ നമ്മൾ എന്താണ് പറയാൻ ശ്രമിക്കുന്നത് ഒരു എൽവിഡിടി ഉണ്ടെന്ന് പറയാൻ നമ്മൾ ശ്രമിക്കുന്നു ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോർമർ പക്ഷേ 0 5 മില്ലീമീറ്ററാണ് ഇൻപുട്ട് ഇവിടെ ഇത് 2 മില്ലിവോൾട്ട് ഔട്ട് പുട്ടാണ് ഞാൻ ഇത് ഒരു ആംപ്ലിഫയറിലേക്ക് അറ്റാച്ചുചെയ്യുന്നു ഇത് 250 തവണയുള്ള ആംപ്ലിഫയർ തുടർന്ന് ഞാൻ വോൾട്ട്മീറ്റർ റീഡിംഗ് നേടാൻ ശ്രമിക്കുന്നു അതിനാൽ എൽവിഡിടിയുടെ സെൻസിറ്റിവിറ്റി ഞാൻ കണക്കാക്കേണ്ടതുണ്ടെങ്കിൽ എൽവിഡിടിയുടെ സെൻസിറ്റിവിറ്റി ഔട്ട് പുട്ട്ഇൻപുട്ട് 2 mV0 5 mm എൽവിഡിടിയുടെ സെൻസിറ്റിവിറ്റി 4 mVmm മുഴുവൻ സജ്ജീകരണത്തിന്റെയും സെൻസിറ്റിവിറ്റി ആംപ്ലിഫയർ 250 × 2mv ആംപ്ലിഫയർ 500 mV സെൻസിറ്റിവിറ്റി ആംപ്ലിഫയർ ഔട്ട് പുട്ട്എൽവിഡിടി ഇൻപുട്ട്500 mV0 5 mm 1Vmm ഇത് മുഴുവൻ സിസ്റ്റത്തിന്റെയും സെൻസിറ്റിവിറ്റി ആയിരിക്കും ഇന്റർമീഡിയറ്റ് ഉപകരണങ്ങൾ നമ്മൾ പൂർത്തിയാക്കി ഇപ്പോൾ ടെർമിനേറ്റിംഗ് ഉപകരണങ്ങൾ പരിശോധിക്കാം ടെർമിനേറ്റിംഗ് ഉപകരണങ്ങളെ മീറ്റർ സൂചകങ്ങളായി തിരിച്ചിരിക്കുന്നു മീറ്റർ സൂചകങ്ങളെ ഇനിപ്പറയുന്ന രീതിയിൽ തരംതിരിക്കാം കറന്റ് അല്ലെങ്കിൽ വോൾട്ടേജ് അളക്കുന്നതിന് ലളിതമായ ഡി ആഴ്സൺവാൾ D Arsonval തരം അടുത്തത് വോൾട്ട് ഓം മില്ലി അമ്മീറ്റർ അല്ലെങ്കിൽ മൾട്ടി മീറ്റർ അല്ലെങ്കിൽ അവസാനത്തേത് വാക്വം ട്യൂബ് വോൾട്ട്മീറ്റർ ആയിരിക്കും അതിനാൽ മീറ്റർ സൂചകങ്ങളെ മൂന്നായി തിരിക്കാം കറന്റ് അല്ലെങ്കിൽ വോൾട്ടേജ് അളക്കുന്നതിനുള്ള ലളിതമായ ഡി ആഴ്സൺവാൾ D Arsonval തരം വോൾട്ട് ഓം മില്ലി അമ്മീറ്റർ അല്ലെങ്കിൽ മൾട്ടി മീറ്റർ വാക്വം തരം വോൾട്ട്മീറ്റർ അതിനാൽ കറന്റ് അല്ലെങ്കിൽ വോൾട്ടേജ് അളക്കുന്നതിനുള്ള ലളിതമായ ഡി ആഴ്സൺവാൾ D Arsonval തരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ പ്രധാനമായും ഇനിപ്പറയുന്ന ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു ഒരു സ്ഥിരം കാന്തം കോയിൽ ഹെയർ സ്പ്രിംഗ് പോയിന്റർ സ്കെയിൽ കോയിൽ അസംബ്ലി ഒരു ഷാഫ്റ്റിൽ സ്ഥാപിച്ചിരിക്കുന്നു അത് നിങ്ങളുടെ ഹെയർ സ്പ്രിംഗിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു കാന്തികക്ഷേത്രം കേന്ദ്രീകരിക്കാൻ തുടക്കത്തിൽ ഇരുമ്പിന്റെ കാമ്പ് കോയിലിനുള്ളിൽ സ്ഥാപിക്കുന്നു നമുക്ക് ചിത്രം കാണാൻ കഴിയും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും അതിനാൽ ഇതാണ് ഞാൻ പറഞ്ഞ സ്കെയിൽ പോയിന്റർ ഇതാണ് ചലിക്കുന്ന കോയിൽ അസംബ്ലി ഇതാണ് നമുക്ക് ഉള്ള ഹെയർ സ്പ്രിംഗ് ഉത്തരധ്രുവം ദക്ഷിണധ്രുവം എന്നീ രണ്ട് സ്ഥിരമായ കാന്തങ്ങളുണ്ട് ഇതാണ് ചലിക്കുന്ന കോയിൽ അസംബ്ലി നിങ്ങൾ തിരികെ പോയാൽ അതിൽ പ്രധാനമായും ഇനിപ്പറയുന്ന ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു സ്ഥിരമായ കാന്തം കോയിൽ ഹെയർ സ്പ്രിംഗ് പോയിന്റർ സ്കെയിൽ ഈ കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട് പോയിന്റർ സ്കെയിൽ പിന്നെ സ്ഥിരമായ കാന്തങ്ങൾ ചലിക്കുന്ന കോയിൽ അസംബ്ലി പിന്നെ നിങ്ങൾക്ക് ഒരു ഹെയർ സ്പ്രിംഗ് ഉണ്ട് അതിനാൽ കോയിൽ അസംബ്ലി ഒരു ഷാഫ്റ്റിൽ സ്ഥാപിച്ചിരിക്കുന്നു അത് ഒരു ഹെയർ സ്പ്രിംഗിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു നമ്മൾ ഈ ഭാഗത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കാന്തികക്ഷേത്രം കേന്ദ്രീകരിക്കാൻ തുടക്കത്തിൽ ഇരുമ്പിന്റെ കാമ്പ് കോയിലിനുള്ളിൽ സ്ഥാപിക്കുന്നു കോയിൽ എവിടെ ഇതാ കോയിൽ അതിനാൽ കോയിൽ സ്പ്രിംഗ് ഘടിപ്പിച്ച് അവർ ഇവിടെ വച്ചു കറന്റ് കൂടുന്നതിനനുസരിച്ച് ടോർക്ക് കൂടുന്നുണ്ടോ എന്ന് അറിയാൻ വളഞ്ഞ പോൾ പീസ് കാന്തത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നു ഇതിനർത്ഥം മീറ്റർ നീക്കാൻ വൈദ്യുതകാന്തിക ഊർജ്ജം ഉപയോഗിക്കുന്നു അതിനാൽ ഇവിടെ ഡയൽ ഗേജ് പോലെ മീറ്റർ നീക്കാൻ ഇത് ഉപയോഗിക്കുന്നു നമ്മൾ ഡയൽ ഗേജ് പഠിച്ചു നമ്മൾ സ്പ്രിംഗ് കോയിൽ ചെയ്തു തുടർന്ന് ഒരു ലീഫ് സ്പ്രിംഗ് ഘടിപ്പിച്ചിരുന്നു അതിനാൽ സമാനമായ രീതിയിൽ ഇവിടെ വൈദ്യുതകാന്തികമായി നമ്മൾ നീക്കാൻ ശ്രമിക്കുകയാണ് അടുത്തത് വോൾട്ട് ഓം മൾട്ടി അമ്മീറ്റർ അല്ലെങ്കിൽ മൾട്ടി മീറ്റർ ഒരു സാധാരണ വോൾട്ട് ഓം മില്ലി അമ്മീറ്റർ മൾട്ടിപ്ലയറുകൾ സ്റ്റണ്ട് റെസിസ്റ്ററുകൾ റക്റ്റിഫയർ സർക്യൂട്ടുകൾ എന്നിവ ബന്ധിപ്പിക്കുന്നതിന് സ്വിച്ചിംഗ് വ്യവസ്ഥ ഉപയോഗിക്കുന്നു ഓം മീറ്റർ ഫംഗ്ഷനിലേക്ക് മാറുന്നതിലൂടെ റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന വൈദ്യുതധാര എളുപ്പത്തിൽ നിർണ്ണയിക്കാനാകും അതിൽ മീറ്ററിന്റെ ചലനത്തിന് കാരണമാകുന്ന അജ്ഞാത റെസിസ്റ്റൻസ്മായി ലീഡുകൾ ബന്ധിപ്പിക്കാൻ കഴിയും കറണ്ട് ഫ്ലോ സൂചന ചെറുത്തുനിൽപ്പിന്റെ അടിസ്ഥാനത്തിൽ കാലിബ്രേറ്റ് ചെയ്യുന്നതിനാൽ നേരിട്ടുള്ള അളവ് സാധ്യമാണ് എന്നതാണ് ഇതിന്റെ ഗുണം നിങ്ങൾക്ക് ഇതിനെ വോൾട്ട് ഓം മില്ലി അമ്മീറ്റർ എന്ന് വിളിക്കാം അല്ലെങ്കിൽ അതിനെ മൾട്ടി മീറ്റർ എന്ന് വിളിക്കുന്നു മൾട്ടിമീറ്ററിന് രണ്ട് പ്രോബുകളുണ്ട് ഈ രണ്ട് പ്രോബുകളും മൾട്ടിപ്ലയറുകളെ ബന്ധിപ്പിക്കുന്നതിന് സോക്കറ്റിൽ ഇടുന്നു സ്റ്റണ്ട് റെസിസ്റ്ററുകളും റക്റ്റിഫയറുകളും നിങ്ങൾക്ക് ഇത് കണക്റ്റുചെയ്യാനാകും തുടർന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഔട്ട് പുട്ട് അളക്കാൻ ശ്രമിക്കുകയാണ് അതിനാൽ ഇത് നേരിട്ട് അളവുകൾ നൽകുന്നു എന്നതാണ് നേട്ടം വിടിവിഎം എന്നറിയപ്പെടുന്ന വാക്വം ട്യൂബ് വോൾട്ട്മീറ്റർ അടിസ്ഥാനപരമായി ട്യൂബിന്റെ ഗ്രിഡ് നിയന്ത്രിക്കുന്നതിന് വോൾട്ടേജ് അളക്കാൻ ഉപയോഗിക്കുന്നു നമ്മൾ അവിടെ കണ്ട ഗ്രിഡ് നിങ്ങൾ ഓർക്കുന്നു ശരിയായ മൾട്ടിപ്ലയർ റെസിസ്റ്ററുകൾ ഉപയോഗിക്കുന്നു അതിലൂടെ എസി അല്ലെങ്കിൽ ഡിസി ഇൻപുട്ട് മീറ്ററിന് നൽകുന്നു ഉയർന്ന ഗ്രിഡ് സർക്യൂട്ട് റെസിസ്റ്റൻസ് കാരണം ലളിതമായ മീറ്ററുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിടിവിഎമ്മിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് സാധാരണയായി വളരെ ഉയർന്നതാണ് ഇത് സിഗ്നൽ ഉറവിടത്തിന്റെ ലോഡിംഗ് കുറയ്ക്കുന്നു അതിനാൽ ഇപ്പോൾ നമുക്ക് ഒരു ലളിതമായ ചോദ്യം പരീക്ഷിക്കാം ഒരു ലീനിയർ റെസിസ്റ്റൻസ് പൊട്ടൻഷ്യോമീറ്ററിന് 50 മില്ലീമീറ്റർ നീളമുണ്ട് നിരവധി ഓം റെസിസ്റ്റൻസ് ഉള്ള ഒരു വയർ ഉപയോഗിച്ച് ഒരേപോലെ ചുറ്റിയിട്ടുണ്ട് സാധാരണ അവസ്ഥയിൽ സ്ലൈഡർ പൊട്ടൻഷ്യോമീറ്ററിന്റെ മധ്യത്തിലാണ് ലീനിയർ ഡിസ്പ്ലേസ്മെൻറിനൊപ്പം രണ്ട് കേസുകൾക്ക് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് കണക്കാക്കിയ പൊട്ടൻഷ്യോമീറ്ററിന്റെ റെസിസ്റ്റൻസ് 3850 ഓംസ് 7560 ഓംസ് രണ്ട് സ്ഥാനചലനങ്ങൾ ഒരേ ദിശയിലാണോ മുകളിലുള്ള ക്രമീകരണത്തിലൂടെ 10 ഓം റെസിസ്റ്റൻസ്ന്റെ ഏറ്റവും കുറഞ്ഞ മൂല്യം അളക്കാൻ കഴിയുമെങ്കിൽ പരിഹാരം കണ്ടെത്തുക സാധാരണ സ്ഥാനത്തെ റെസിസ്റ്റൻസ് 1000025000 Ω പൊട്ടൻഷ്യോമീറ്റർ നീളം എന്നതിന്റെ റെസിസ്റ്റൻസ് 1000050200 Ωmm സാധാരണ സ്ഥാനത്ത് നിന്ന് റെസിസ്റ്റൻസ്ന്റെ മാറ്റം 5000-3850 1150 Ω അതിനാൽ സാധാരണ സ്ഥാനത്ത് നിന്ന് സ്ലൈഡറിന്റെ 2 ഡിസ്പ്ലേസ്മെന്റ് 11502005 75 mm ഡിസ്പ്ലേസ്മെന്റ് 7560 500020012 8 mm 3 റെസൊല്യൂഷൻ മിനിമം × 12000 05 mm അതിനാൽ റെസൊല്യൂഷൻ കണ്ടെത്തി ഡിസ്പ്ലേസ്മെന്റ് ഉം കണ്ടെത്തി CRO കാത്തോഡ് റേ ഇത് നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു ഔട്ട് പുട്ട് ഉപകരണം കൂടിയാണ് പോയിന്റർ ഉപയോഗിച്ച് ലളിതമായ കോയിൽ ഔട്ട് പുട്ട് വഴി നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിയും മൾട്ടി മീറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് അളക്കാൻ കഴിയും നിങ്ങൾക്ക് ഒരു വാക്വം ട്യൂബ് ഉപയോഗിച്ച് ഇത് അളക്കാൻ കഴിയും നിങ്ങൾക്ക് ഇത് CRO ഉപയോഗിച്ച് അളക്കാനും കഴിയും ഒരു തരംഗരൂപം അളക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന ഒരു വോൾട്ടേജ് സെൻസിറ്റീവ് ഉപകരണമാണ് കാഥോഡ് റേ ഓസിലോസ്കോപ്പ് അല്ലെങ്കിൽ CRO കുറഞ്ഞ നിഷ്ക്രിയത്വമുള്ള ഇലക്ട്രോണിന്റെ ഒരു ബീം ഫ്ലൂറസെന്റ് സ്ക്രീനിൽ തട്ടുന്നു സിസ്റ്റത്തിലേക്ക് വ്യത്യസ്ത വോൾട്ടേജ് ഇൻപുട്ട് ഉപയോഗിച്ച് വേഗത്തിൽ മാറാൻ കഴിയുന്ന ഒരു ഇമേജ് സൃഷ്ടിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രയോജനം CRO യുടെ അടിസ്ഥാന പ്രവർത്തന യൂണിറ്റാണ് CRT CRO യുടെ അടിസ്ഥാന പ്രവർത്തനമാണ് കാത്തോഡ് റേ ട്യൂബ് ഒരു ഹീറ്റർ കാഥോഡ് കൺട്രോൾ ഗ്രിഡ് ത്വരിതപ്പെടുത്തുന്ന ആനോഡുകൾ എന്നിവ ഉൾപ്പെടുന്ന ഇലക്ട്രോൺ ഗൺ അസംബ്ലി ഉണ്ട് കാഥോഡ് ചൂടാകുമ്പോൾ നിങ്ങൾ തിരികെ പോയി കാഥോഡ് ആനോഡ് ചൂടാക്കുന്നു അവിടെ ഗ്രിഡ് ജനറേറ്റുചെയ്യുന്നു പോസിറ്റീവ് ചാർജ്ജ് ആയ ആനോഡിലെ അക്ഷീയ നിരക്ക് പുറത്തുവിടുന്ന ഇലക്ട്രോൺ സ്ട്രീമിലേക്ക് ആവശ്യമായ സ്ട്രൈക്കിംഗ് വോൾട്ടേജ് നൽകുന്നു ആവശ്യമായ ആക്സിലറേഷൻ കുറച്ച ശേഷം ഇലക്ട്രോൺ ബീം തിരശ്ചീനവും ലംബവുമായ ഡിഫ്ലക്ട്ടിംഗ് പ്ലേറ്റ്ലൂടെ കടന്നുപോകുന്നു ഇത് എക്സ് വൈ ദിശകളിലെ അടിസ്ഥാന ചലനം നൽകുന്നു ഇതൊരു CRO ആണ് നിങ്ങൾക്ക് ഒരു ഹീറ്റർ ഉണ്ട് ഈ ഹീറ്റർ ഇലക്ട്രോണുകളെ പുറന്തള്ളാൻ ശ്രമിക്കുന്നു ഇവിടെ ഫോക്കസ് ആനോഡ് അതിനാൽ ചിതറിക്കിടക്കുന്ന ഇലക്ട്രോണുകൾ ഒരൊറ്റ വരിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു നിങ്ങൾക്ക് ഡിഫ്ലക്ട്ടിംഗ് പ്ലേറ്റുകളുണ്ട് ഇവയെ ലംബമായ ഡിഫ്ലക്ട്ടിംഗ് പ്ലേറ്റ് എന്ന് വിളിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് തിരശ്ചീന ഡിഫ്ലക്ട്ടിംഗ് പ്ലേറ്റ് ഉണ്ടാകും ഇലക്ട്രോൺ ഇതിലൂടെ സ്ക്രീനിലേക്ക് നീങ്ങുന്നു ഇതാണ് ഇലക്ട്രോൺ ബീം ഇലക്ട്രോൺ ബീം ചൂടാക്കി കടന്നുപോകുന്നു അത് തെർമിയോണുകളാണ് ഇത് ചൂടാക്കുകയും പുറന്തള്ളുകയും ഈ അയോണുകൾ ഫോക്കസ് ചെയ്തുകഴിഞ്ഞാൽ ഈ ഫോക്കസിംഗ് ആനോഡുകളിലൂടെ കടന്നുപോകുകയും പിന്നീട് ലംബമായും തിരശ്ചീനമായും പ്ലേറ്റുകൾ വഴിതിരിച്ചുവിടുകയും സ്ക്രീനിൽ അടിക്കുകയും ചെയ്യുന്നു തുടർന്ന് അത് അടിക്കുമ്പോൾ അത് പ്രകാശിക്കുന്നു അതിനാൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്തെ ഇലക്ട്രോൺ ഗൺ എന്ന് വിളിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ലംബ പ്ലേറ്റുകൾ തിരശ്ചീന പ്ലേറ്റുകൾ ഉണ്ട് തിരശ്ചീന പ്ലേറ്റുകൾ തിരശ്ചീന ആംപ്ലിഫയറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു തുടർന്ന് നിങ്ങൾക്ക് സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജനറേറ്റർ ട്രിഗർ സർക്യൂട്ടുകൾ ഉണ്ട് തിരശ്ചീന ആംപ്ലിഫയർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ലംബ ആംപ്ലിഫയറും ഉണ്ട് നിങ്ങൾക്ക് ഡിലെ ലൈനുകളും ഉണ്ട് അതിനാൽ ഇവിടെ ഒരു ഇൻപുട്ട് നൽകിയിട്ടുണ്ട് തുടർന്ന് ഈ ലംബ ആംപ്ലിഫയർ എടുക്കുന്നു അതിനാൽ അടിസ്ഥാനപരമായി ഇത് ഇലക്ട്രോണുകളെ പിന്നോട്ട് നീക്കാൻ ശ്രമിക്കും ഇലക്ട്രോൺ ബീം അതിലേക്ക് അല്ലെങ്കിൽ വ്യതിചലനം എടുക്കാൻ ശ്രമിക്കാം ഇവിടെ ഡിലെ ലൈനുണ്ട് അതിനാൽ ഇത് നമുക്ക് ഇൻപുട്ടുകൾ നൽകുന്നു അതിനാൽ ചൂടാക്കൽ ഫോക്കസിംഗ് ലംബ പ്ലേറ്റുകൾ തിരശ്ചീന പ്ലേറ്റുകൾ സ്ക്രീൻ പ്രകാശം സംഭവിക്കുന്നു ഇതാണ് ഒരു CRO യുടെ സ്കീമമാറ്റിക് ഡയഗ്രം അതിനാൽ ഒരു CRO ന് ഒരു CRT ഉണ്ടായിരിക്കും ഇത് ഉയർന്ന വോൾട്ടേജ് വിതരണമാണ് സർക്യൂട്ടിലേക്ക് കുറഞ്ഞ വോൾട്ടേജ് വിതരണം ഇലക്ട്രോൺ ഗൺ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ സ്കാനിംഗ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനും ഇതേ ഇലക്ട്രോൺ ഗൺ ഉപയോഗിക്കുന്നു ഏതാണ്ട് ഒരേ കാര്യം ഒരേയൊരു കാര്യം നിങ്ങൾക്ക് ഒരു ഗൺ ഉണ്ടാകും ഇലക്ട്രോൺ ബീമിന് ഉയർന്ന വൈദ്യുത പ്രവാഹമുണ്ടാകുമോ നിങ്ങൾ ഉയർന്ന ഭാഗത്ത് പോയാൽ ഇലക്ട്രോൺ ബീം മെഷീനിങ് അല്ലെങ്കിൽ വെൽഡിംഗിനും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം നമ്മൾ ഒരേ ഇലക്ട്രോൺ ഗൺ ഉറവിടമാണ് ഉപയോഗിക്കുന്നത് ഒരേയൊരു കാര്യം ഇലക്ട്രോണിലുള്ള ഊർജ്ജം കൂടുതലാണ് ഇത് സ്ഥാനചലനം അല്ലെങ്കിൽ ടെർമിനേറ്റിംഗ് ഉപകരണമാണ് ഇവ ഡിസ്പ്ലേയിങ് ഉപകരണങ്ങളാണ് ഒരു CRO യുടെ പ്രത്യേക സവിശേഷത നിങ്ങൾക്ക് ഓസിലോസ്കോപ്പ് ആംപ്ലിഫയറുകളുണ്ട് സിആർഒയുടെ സെൻസിറ്റിവിറ്റി വളരെ മോശമായതിനാൽ അളവെടുപ്പ് പ്രയോഗത്തിനായി അവ വ്യാപകമായി ഉപയോഗിക്കുന്നതിന് ഡിഫ്ലക്ട്ടിംഗ് പ്ലേറ്റുകളിൽ പ്രയോഗിക്കുന്നതിന് മുമ്പ് സിഗ്നലിന്റെ വിപുലീകരണം നൽകേണ്ടത് അത്യാവശ്യമാണ് അതിനാലാണ് നമുക്ക് ഒരു ആംപ്ലിഫയർ ഉള്ളത് ലംബ ആംപ്ലിഫയറുകൾ വാസ്തവത്തിൽ പല CRO കളും ലംബവും തിരശ്ചീനവുമായ പ്ലേറ്റുകൾക്കായി DC AC ആംപ്ലിഫിക്കേഷൻ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു സിങ്ക്രോനൈസേഷൻ സ്ഥിരമായ ഒരു ഇമേജ് തുടർച്ചയായി ലഭിക്കുന്നതിന് തരംഗരൂപത്തിന്റെ ഫ്രീക്വൻസി അനുയോജ്യമായ ഉയർന്ന തലത്തിൽ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണെന്ന് നമുക്കറിയാം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ലംബമായ ഡിഫ്ലക്ട്ടിംഗ് പ്ലേറ്റ് ങ്ങളിൽ വോൾട്ടേജ് പ്രയോഗിക്കണമെങ്കിൽ അതായത് Y അക്ഷം ശരിയാക്കേണ്ടതുണ്ട് 50 ഹെർട്സ് എന്ന് പറയുക തുടർച്ചയായ ചിത്രം നേടുന്നതിന് എക്സ് ആക്സിസിൽ പ്രയോഗിക്കുന്ന സോ ടൂത്ത് ഫ്രീക്വൻസി 60 ഹെർട്സ് ആയി നിശ്ചയിക്കണം അല്ലാത്തപക്ഷം ഇത് ചിത്രങ്ങളെ വികൃതമാകും അതിനാൽ പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഈ ഡിഫ്ലക്ട്ടിംഗ് പ്ലേറ്റ് ഉണ്ടെന്നാണ് അതിനാൽ ഈ ഡിഫ്ലക്ട്ടിംഗ് പ്ലേറ്റ് ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിൽ സമന്വയിപ്പിക്കണം അതിനാൽ നിങ്ങൾക്ക് ഒരു ഔട്ട് പുട്ട് ലഭിക്കും തീവ്രത അല്ലെങ്കിൽ ഇസഡ് മോഡുലേഷൻ ഗ്രിഡ് വോൾട്ടേജ് നിയന്ത്രിക്കുന്നതിലൂടെ വൈദ്യുത പ്രവാഹം നിയന്ത്രിക്കാൻ കഴിയുമെന്ന് നമ്മൾക്കറിയാം അതിനാൽ നമ്മൾ സംസാരിക്കുന്ന ഗ്രിഡ് വോൾട്ടേജ് എന്താണ് ഇവ ഗ്രിഡ് വോൾട്ടേജുകളാണ് അതേപോലെ തന്നെ ഇത് കാഥോഡ് ആനോഡ് ഇതാണ് ആനോഡ് ഇത് കാഥോഡ് എന്നിട്ട് നിങ്ങൾക്ക് ഒരു ഗ്രിഡ് ഉണ്ട് ഈ ഗ്രിഡിന് എല്ലായ്പ്പോഴും ഒരു ബയസ് നൽകും ഇലക്ട്രോൺ ബീം സൃഷ്ടിച്ച ഫ്ലൂറസെന്റ് ഇമേജിൽ തിളക്കമുള്ളതും ഇരുണ്ടതുമായ ഷേഡുകൾ ലഭിക്കുന്നതിന് ഗ്രിഡ് ഭാഗത്തിന് അനുസരിച്ച് പോസിറ്റീവ് നെഗറ്റീവ് വോൾട്ടേജുകൾ പ്രയോഗിക്കുന്നു അതിനാൽ ബാഹ്യ തിരശ്ചീന ഇൻപുട്ടുകളും പ്രയോഗിക്കുന്നു ഇത് വോൾട്ടേജ് ഫ്രീക്വൻസി ഘട്ടം ബന്ധം എന്നിവയുമായി താരതമ്യപ്പെടുത്തുന്നു ഔട്ട് പുട്ട് നേടാൻ നമുക്ക് ശ്രമിക്കാം ഡയറക്ട് റൈറ്റിംഗ് ടൈപ്പ് ഓസിലോഗ്രാഫുകൾ ഉണ്ട് ചലിക്കുന്ന പേപ്പറിൽ ചിത്രം കണ്ടെത്തുന്ന ഒരു സ്റ്റൈലസ് ഇതിൽ അടങ്ങിയിരിക്കുന്നു അതിനാൽ ഓസിലോസ്കോപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഇത് ഒരു വായനാ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ കഴിയും അതിന് എക്സ് അക്ഷം ഉണ്ടാകും സമയമായിരിക്കാം Y അക്ഷം വലുപ്പം പോലെ എന്തും ആകാം അതിനാൽ അടിസ്ഥാനപരമായി അതിൽ നേരിട്ടുള്ള കോൺടാക്റ്റ് സ്ഥാപിച്ച് ചലിക്കുന്ന പേപ്പറിന്റെ ചിത്രം കണ്ടെത്തുന്ന ഒരു സ്റ്റൈലസ് അടങ്ങിയിരിക്കുന്നു കണ്ടെത്തുന്നതിനും എഴുതുന്നതിനും ഈ ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന സ്റ്റൈലസ് കറണ്ട് സെൻസിറ്റീവ് ആണ് സ്റ്റൈലസിനു കീഴിൽ പേപ്പർ നീക്കുന്നതിലൂടെ റെക്കോർഡിംഗ് നേടാനാകും ഇത് ഇൻപുട്ടിന്റെ സമയ അടിസ്ഥാന പ്രവർത്തനമായി ഇൻപുട്ട് സിഗ്നൽ വഴി ഡിഫ്ലക്ട് ചെയ്യുന്നു നിങ്ങൾക്ക് ഓസിലോഗ്രാഫുകളും ഉണ്ട് നമ്മൾ കണ്ടത് ഓസിലോസ്കോപ്പ് ആയിരുന്നു ഇതാണ് ഓസിലോഗ്രാഫ് ഡിസ്പ്ലേ ഇത് പ്രത്യേകം റെക്കോർഡുചെയ്യാം ഇത് ഒരു ഹാർഡ്കോർ റീഡിങ് ആയി പരിവർത്തനം ചെയ്യാനും കഴിയും ഔട്ട് പുട്ട് ലൈറ്റ് ബീം ഓസിലോഗ്രാഫുകളും ഉണ്ട് ഇതിൽ പ്രധാനമായും പേപ്പർ പ്രവർത്തിപ്പിക്കുന്ന സംവിധാനം ഗാൽവാനോമീറ്റർ വൈദ്യുതപ്രവാഹത്തിനുള്ള ഒപ്റ്റിക്കൽ സിസ്റ്റം എന്നിവ ഉൾപ്പെടുന്നു ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിം പേപ്പറിൽ റെക്കോർഡുചെയ്യാനാകുന്ന ഒരു സ്ഥാനചലനത്തിലേക്കുള്ള കറണ്ട് സെൻസിറ്റീവ് ഗാൽവാനോമെട്രിക് റൊട്ടേഷൻ അതിനാൽ ഒരു ലൈറ്റ് ബീം ഓസിലോഗ്രാഫും ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് ഒരു എക്സ് വൈ പ്ലോട്ടറും ഉണ്ട് ഇത് നേരിട്ടുള്ള ഓസിലോസ്കോപ്പ് പോലെയാണ് ഇവയെല്ലാം ടെർമിനേറ്റിംഗ് ഉപകരണങ്ങളാണ് ഇത് ലൈറ്റ് ബീം ഓസിലോഗ്രാഫ് ഡയറക്ടറേറ്റ് ഓസിലോഗ്രാഫിൽ ഉപയോഗിക്കുന്നു രണ്ട് ഡിസി ഇൻപുട്ടുകൾ വഴി ലഭിക്കുന്ന X ഔട്ട് പുട്ട് പ്ലോട്ട് ചെയ്യുന്നതിന് നിങ്ങൾക്ക് എക്സ്വൈ പ്ലോട്ടറുകളുണ്ട് അതായത് എക്സ് വൈ ആക്സിസ് അതിൽ സ്വയം ബാലൻസിംഗ് പൊട്ടൻഷ്യോമീറ്റർ അടങ്ങിയിരിക്കുന്നു ഒന്ന് പേപ്പറിന്റെ സ്ഥാനം നിയന്ത്രിക്കാനും മറ്റൊന്ന് പേനയുടെ സ്ഥാനം നിയന്ത്രിക്കാനും ഇത് പ്രവർത്തിക്കുകയും നിങ്ങൾ കൂടുതൽ ഇ എഫ് നേടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇത് ട്രാൻസ്ഡ്യൂസറിന്റെ ഔട്ട് പുട്ട് സിഗ്നലാണ് ഡിസ്പ്ലേസ്മെൻറ് ഫോഴ്സ് പ്രഷർ സ്ട്രെയിൻ മറ്റ് പാരാമീറ്ററുകൾ എന്നിവയുടെ മൂല്യം അതിനാൽ ട്രാൻഡ്യൂസർമാരുടെ ഈ അധ്യായത്തിൽ നമ്മൾ എല്ലാം ഉൾക്കൊള്ളുന്നു ട്രാൻഡ്യൂസറുകളിലെ ട്രാൻസ്ഫർ കാര്യക്ഷമത എന്താണെന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയായിരുന്നു ട്രാൻസ്ഡ്യൂസറുകളുടെ വിവിധ തരംതിരിവുകൾ ഇന്റർമീഡിയറ്റ് മോഡിഫൈയിംഗ് ഉപകരണങ്ങൾ കറന്റും വോൾട്ടേജും അളക്കുന്നതിനുള്ള ലളിതമായ ഡി അർസ്നോവൽ തരം D'Arsnoval പിന്നെ ഇന്റർമീഡിയറ്റ് പരിഷ്ക്കരണ ഉപകരണങ്ങളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് തുടർന്ന് ടെർമിനേറ്റിംഗ് ഉപകരണങ്ങൾ ഒരു CRO യുടെ പ്രവർത്തനം നമ്മൾ കണ്ടു ഒടുവിൽ ഓസിലോഗ്രാഫുകളും എക്സ് വൈ പ്ലോട്ടറും വിദ്യാർത്ഥികൾക്കായുള്ള ടാസ്ക് ഭൂകമ്പം നോക്കാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ ഭൂകമ്പ പ്രതികരണം ഓൺലൈനിൽ അളക്കുന്നുവെന്ന് പറയാൻ ശ്രമിക്കാം അത് ഒരു CRO വഴിയോ അല്ലെങ്കിൽ ഒരു പ്ലോട്ടർ വഴിയോ ആകാം ഈ അപ്ലിക്കേഷനായി ഒരു സ്കീമാറ്റിക് ഡയഗ്രം വികസിപ്പിക്കാൻ ശ്രമിക്കുക അവർ അത് എങ്ങനെ ചെയ്യും ഉദാഹരണത്തിന് അവർ അത് റിക്ടർ സ്കെയിലുകളിൽ ചെയ്യുന്നു മാത്രമല്ല അവ സമയവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നു അതിനാൽ അവർ അളക്കുന്നത് മനസിലാക്കുക ആദ്യം നിങ്ങൾ അത് മനസിലാക്കുകയും അത് എങ്ങനെ ഇടയ്ക്കിടെ കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നു അവസാനമായി നിങ്ങൾ കാണുന്ന ഡിസ്പ്ലേ എന്താണ് പ്ലോട്ടറിന്റെ കാര്യത്തിൽ ഡിസ്പ്ലേ എങ്ങനെ അതിനാൽ നിങ്ങളുടെ സമയ സ്കെയിലുകളിൽ എനിക്ക് കൂടുതൽ താൽപ്പര്യമുണ്ട് നമ്മൾ എല്ലായ്പ്പോഴും വ്യാപ്തിയെക്കുറിച്ചും രണ്ടാമതായി സ്കെയിലിന്ക്കുറിച്ചും സംസാരിക്കുന്നു അതിനാൽ ഒരു റിക്ടർ സ്കെയിൽ ഉപയോഗിക്കുന്നു ഞാൻ സ്പെസിഫിക്കേഷൻ പോലും നൽകുന്നില്ല അതിനാൽ സാധാരണയായി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഡാഷ് സ്കെയിലാണ് ആപ്ലിക്കേഷന്റെ സ്കീമാറ്റിക് ഡയഗ്രം മനസിലാക്കാൻ ശ്രമിക്കുക തുടർന്ന് അവർ ഡാറ്റയെ പ്രതിനിധീകരിക്കുന്ന ഒരു സ്കെയിൽ ഉണ്ട് അതിനാൽ അവ എങ്ങനെയാണ് കാലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് മനസിലാക്കാൻ ശ്രമിക്കുക സ്കെയിലിലേക്ക് ഡാറ്റ കാലിബ്രേറ്റ് ചെയ്യുകയും സ്കെയിലിൽ റിപ്പോർട്ടുചെയ്യുകയും ചെയ്യുക അടുത്ത ചോദ്യം ആളുകൾ ജലപ്രവാഹം എങ്ങനെ അളക്കുന്നു എന്നതാണ് ഒരു ഡാമിലെ ജലപ്രവാഹം ഒരു ഡാമിലെ ജലപ്രവാഹം നിങ്ങൾ എങ്ങനെ അളക്കും രണ്ടാമത്തെ കാര്യം അത് എങ്ങനെ രേഖപ്പെടുത്തുന്നു എന്നതാണ് അവസാനത്തേത് ആളുകൾ മഴയെ എങ്ങനെ അളക്കും ഡാറ്റയ്ക്കായി നിങ്ങൾ കാത്തിരിക്കേണ്ട ചില കാര്യങ്ങളാണിവ ഇത് എങ്ങനെ പ്ലോട്ട് ചെയ്തിരിക്കുന്നു എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസിലാക്കുക ഇതെല്ലാം നിങ്ങൾ സ്വയം പഠിക്കാനുള്ള ജോലികളാണ് പരീക്ഷയിൽ നിങ്ങൾക്ക് ഈ ടാസ്ക്കുകളെ അടിസ്ഥാനമാക്കി ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും ഞാൻ വിദ്യാർത്ഥികൾക്ക് ടാസ്ക്കുകൾ നൽകുന്നതെന്തും അതിലുപരിയായി നിങ്ങൾ ഈ ടാസ്ക്കുകളെല്ലാം മനസിലാക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ അളക്കൽ ശാസ്ത്രത്തെ വിലമതിക്കാൻ തുടങ്ങും വളരെയധികം നന്ദി